കോണിക് സെക്ഷൻസ് IV എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഞാൻ ഐഐടി ഖരഗ്പൂരിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള രാജരാം ലക്കരാജു നമ്മൾ കോണിക് സെൿഷൻസിലെ മൊഡ്യൂൾ നമ്പർ 2 ലെക്ചർ 12 ലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ് സംഗ്രഹിക്കുകയാണെങ്കിൽ ഒരു തിരശ്ചീന തലം ഉപയോഗിച്ച് റൈറ്റ് സർക്കുലർ കോണിനെ വിഭാഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സർക്കിൾ ലഭിക്കും കൂടാതെ കോണിന്റെ രണ്ട് സ്ലാന്റുകളും മുറിക്കുന്ന തരത്തിലുള്ള ഒരു ചെരിഞ്ഞ തലം ഉപയോഗിച്ച് നമ്മൾ വിഭാഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അണ്ഡവൃത്തം ലഭിക്കും ചരിവിനു സമാന്തരമായി ഒരു കട്ട് സെക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു ഹൈപ്പർബോള ഉണ്ടാക്കുന്നു ഇന്നത്തെ പ്രഭാഷണത്തിൽ ജ്യാമിതീയ മാർഗങ്ങൾ ഉപയോഗിച്ച് ഒരു അണ്ഡവൃത്തം എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം തത്വത്തിൽ നാല് രീതികൾ ലഭ്യമാണ് ആദ്യത്തേത് ഫോക്കസ് ഡയറക്ട്രിക്സ് രീതി രണ്ടാമത്തേത് ഏകാഗ്ര സർക്കിൾ രീതി മൂന്നാമത്തേത് ഒബ്ലോങ് രീതി നാലാമത്തേത് ആർക്ക് ഓഫ് സർക്കിൾ രീതി ആദ്യ രീതിയിൽ അതായത് ഫോക്കസ് ഡയറക്ട്രിക്സ് രീതിയിൽ നമ്മൾ ഡയറക്ട്രിക്സ് എക്സിൻട്രിസിറ്റി ഫോക്കസ് എന്നിവ നിർവചിക്കേണ്ടതുണ്ട് ഈ പദങ്ങൾ ഓരോന്നായി നോക്കാം ഉദാഹരണത്തിന് നമുക്ക് ഒരു അണ്ഡവൃത്തം എടുക്കാം ഈ അണ്ഡവൃത്തത്തിൽ നമുക്ക് ഫോക്കസ് എന്ന് വിളിക്കുന്ന ഒരു കേന്ദ്രബിന്ദു ഉണ്ട് സാധാരണയായി ഒരു അണ്ഡവൃത്തത്തിന് എല്ലായ്പ്പോഴും 2 ഫോസൈ ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു ഫോസൈ ഇവിടെ ഉണ്ടാകും രണ്ടാമത്തെ ഫോസൈ അവിടെ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ഒരു ഫോസൈ മാത്രം കാണിക്കുന്നു കൂടാതെ ഡയറക്ട്രിക്സ് രേഖ എന്ന് വിളിക്കുന്ന ഒരു രേഖയുമുണ്ട് ഈ ഡയറക്ട്രിക്സ് രേഖയിൽ നിന്ന് ഒരാൾക്ക് ഒരു അണ്ഡവൃത്തമോ പരാബോളയോ ഹൈപ്പർബോളയോ നിർമ്മിക്കാൻ കഴിയും സാധാരണയായി ഏതെങ്കിലും കർവിന് അത് ഒരു അണ്ഡവൃത്തമോ പരാബോളയോ ഹൈപ്പർബോളയോ ആകട്ടെ ഫോക്കസിൽ നിന്ന് ആ കർവിലുള്ള ഒരു പോയിൻറ് വരെ ഉള്ള ദൂരവും ആ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം എന്താണ് ഈ അനുപാതം ഒരു അദ്വിതീയ കാര്യമാകുന്നു ഈ അനുപാതത്തെ അടിസ്ഥാനമാക്കി അതായത് ഫോക്കസിൽ നിന്ന് ആ കർവിലുള്ള ഒരു പോയിൻറ് വരെ ഉള്ള ദൂരവും ആ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം അടിസ്ഥാനമാക്കി കർവുകൾ ലഭിക്കുന്നു ഈ അനുപാതം ഉദാഹരണത്തിന് 1 നു താഴെ ആണെങ്കിൽ നമുക്ക് ഒരുതരം കർവ് ലഭിക്കും അത് 1 ന് തുല്യമാണെങ്കിൽ നമുക്ക് ഒരുതരം കർവ് ലഭിക്കും അത് 1 നെക്കാൾ വലുതാണെങ്കിൽ നമുക്ക് മറ്റൊരു തരം കർവ് ലഭിക്കും കൂടാതെ നമ്മൾ ആ അനുപാതത്തെ എക്സിൻട്രിസിറ്റി എന്ന് വിളിക്കുന്നു അതിനാൽ ഫോക്കസിൽ നിന്ന് ഒരു പോയിൻറ്ന്റെ ദൂരം എന്നാണ് എക്സിൻട്രിസിറ്റിയെ നിർവചിക്കുന്നത് ഉദാഹരണത്തിന് ഇത് ഒരു അണ്ഡവൃത്തമാണെങ്കിൽ ഈ പോയിന്റ് റിയൽ നിന്ന് ഈ പോയിന്റ്റിലേക്കുള്ള ദൂരമാണിത് ഈ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തേക്ക് വരെ ഒരു പരാബോളയാണെങ്കിൽ ആ പോയിന്റ്റിൽ നിന്ന് ഫോക്കസ് വരെ ഉള്ള ദൂരം ÷ ആ പോയിന്റ്റിൽ നിന്ന് ഡയറക്ട്രിക്സിൽ വരെ ഉള്ള ദൂരം ആണ് എക്സിൻട്രിസിറ്റി അതിനാൽ അതിൽ നിന്ന് ആ പ്രത്യേക പോയിന്റിലേക്കുള്ള ലംബ രേഖ ഡയറക്ട്രിക്സ് ആണെങ്കിൽ നമ്മൾ ഇതിനെ ഡിനോമിനേറ്റർ എന്ന് വിളിക്കുന്നു അത് ഒരു സവിശേഷ അനുപാതമായ എക്സിൻട്രിസിറ്റി സൃഷ്ടിക്കുന്നു ഫോക്കസ് ഡയറക്ട്രിക്സ് രീതി ഉപയോഗിച്ച് ഒരു അണ്ഡവൃത്തമോ പരാബോളയോ ഹൈപ്പർബോളയോ നിർമ്മിക്കാനുള്ള പ്രധാന കാര്യങ്ങളാണ് ഈ എക്സിൻട്രിസിറ്റിയും ഡയറക്ട്രിക്സും എക്സിൻട്രിസിറ്റി 1 ൽ കുറവാണെങ്കിൽ നമുക്ക് ഒരു അണ്ഡവൃത്തം ലഭിക്കും ഇത് 1 ന് തുല്യമാണെങ്കിൽ നമുക്ക് ഒരു പരാബോള ലഭിക്കും അതായത് പരാബോളയിലെ ഫോക്കസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരവും ഈ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും തുല്യമാണ് അനുപാതം 1 ആയതിനാൽ ഇത്തരം കർവുകളെ പരാബോള എന്ന് വിളിക്കുന്നു ആ എക്സിൻട്രിസിറ്റി 1 നെക്കാൾ വലുതാണെങ്കിൽ നമുക്ക് ഒരു ഹൈപ്പർബോള ലഭിക്കും ഒന്നാമതായി നമുക്ക് ഈ ഫോക്കസ് ഡയറക്ട്രിക്സ് രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഈ സാഹചര്യത്തിൽ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഫോക്കസിന്റെ ദൂരം നൽകുകയാണെങ്കിൽ നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നു അതിനാൽ ഏകപക്ഷീയമായ കർവിന് ഒരു ഡയറക്ട്രിക്സും ഫോക്കസും ഉണ്ടാകും അതിനാൽ ഡയറക്ട്രിക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും എക്സിൻട്രിസിറ്റിയുടെ മൂല്യം 1 നെക്കാൾ കുറവാണ് എന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഏകപക്ഷീയമായ കർവ് നിർമ്മിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഒരു അണ്ഡവൃത്തത്തിന്റെ എക്സിൻട്രിസിറ്റി 0 75 ആണ് എക്സിൻട്രിസിറ്റി 1 ൽ കുറവാണെങ്കിൽ നമുക്ക് ഒരു അണ്ഡവൃത്തം ലഭിക്കും ഡയറക്ട്രിക്സിൽ നിന്ന് ഫോക്കസിന്റെ ദൂരം 70 മില്ലിമീറ്ററാണ് അങ്ങനെയാണെങ്കിൽ ഒരു അണ്ഡവൃത്തം നിർമിക്കാം അതിനാൽ ഈ ഡയറക്ട്രിക്സ് ഫോക്കസ് രീതിയിൽ ഒന്നാമതായി നമ്മൾ ഈ ഡയറക്ട്രിക്സ് വരയ്ക്കും സി വരെ ഇതുപോലൊരു തിരശ്ചീന രേഖ നമ്മൾ നിർമ്മിക്കും ഡയറക്ട്രിക്സിൽ നിന്ന് 70 മില്ലീമീറ്റർ മാറി ഫോക്കൽ പോയിന്റ് നമ്മൾ കണ്ടെത്തും ടാൻജെന്റ് ലൈനുകൾ ലംബ വരകൾ തിരശ്ചീന രേഖകൾ എന്നിവ വരച്ചുകൊണ്ട് ജ്യാമിതീയ നിർമ്മാണം നടത്തുക വിഭജിക്കുന്ന പോയിന്റുകൾ നിർമ്മിക്കുക ഈ വിടവ് ഒരു അണ്ഡവൃത്തം പോലെ പൂരിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൽ പിന്തുടരുക ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് കാണാം പിന്തുടരേണ്ട ഘട്ടങ്ങൾ വലതുവശത്ത് ചിത്രത്തിൽ നമ്മൾ പിന്തുടരേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കും ഇടത് വശത്ത് ഞാൻ ഘട്ടങ്ങൾ കാണിക്കും ആദ്യത്തേത് ഡയറക്ട്രിക്സ് എ ബി വരയ്ക്കുക അതിനർത്ഥം ഒന്നാമതായി നമ്മൾ ഒരു ലംബ രേഖ എ ബി AB യും അച്ചുതണ്ട് സിസി' CC' വരയ്ക്കുക എന്നതാണ് അതിനാൽ പോയിന്റ് സി യിൽ നിന്ന് സിസി എന്ന പേരുള്ള രേഖ വരയ്ക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ സിസി രേഖയിൽ പോയിന്റ് എഫ് മാർക്ക് ചെയ്യുക അതിനാൽ നമ്മൾ ഇതിനകം എ ബി സി സി എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ ഇപ്പോൾ ഫോക്കസ് എഫ് കണ്ടെത്തുക അത് 70 മില്ലീമീറ്ററായിരിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ CF വിഭജിക്കുക അതിനാൽ പോയിന്റ് സി പോയിന്റ് എഫ് എന്നിവ നമുക്കറിയാം കൂടാതെ ഈ സി മുതൽ എഫ് വരെ ഉള്ള ദൂരം 7 3 പ്ലസ് 4 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം ഈ 3 അധികം 4 വരുന്നത് എക്സിൻട്രിസിറ്റി മൂലമാണ് അതിനാൽ ഫോക്കൽ പോയിന്റ് മുതൽ കർവിലെ ഏത് പോയിന്റിലേക്കും ഈ കർവ് ഈ പോയിന്റിലൂടെ കടന്നുപോകുന്നതിനാൽ വി മുതൽ എഫ് വരെ 3 യൂണിറ്റുകളും സി മുതൽ വി വരെ 4 യൂണിറ്റുകളും ആയിരിക്കും അതിനാൽ സി മുതൽ എഫ് വരെയുള്ള മൊത്തം ദൂരം 7 ഭാഗമായിരിക്കും അതിനാൽ 3 ÷ 4 യൂണിറ്റുകൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ സി എഫ് രേഖ 7 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക നമ്മൾ അത് 7 ഭാഗങ്ങളായി വിഭജിച്ചുകഴിഞ്ഞാൽ മധ്യഭാഗത്ത് നിന്ന് നാലാമത്തെ ഡിവിഷനിൽ V എന്ന് അടയാളപ്പെടുത്തുക അതിനാൽ V 4 യൂണിറ്റ് അകലത്തിലായിരിക്കും അതിനാൽ ഇപ്പോൾ എക്സിൻട്രിസിറ്റി മൂന്നിൽ നാലായിരിക്കും 34 അതിനുശേഷം V ൽ നിന്നും ലംബമായ VB വരയ്ക്കുക അതിന്റെ ദൂരം VF ന് തുല്യമാണ് അതിനാൽ നമ്മൾ ഇതിനകം ആ കർവിൽ പോയിന്റ് V കണ്ടെത്തി അതിനാൽ ഇപ്പോൾ ഒരു മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് ലംബ രേഖ വരയ്ക്കുക അതിനാൽ ഇത് പോയിന്റ് V ആണ് എവിടെയെങ്കിലും നമുക്ക് പോയിന്റ് ബി ഉണ്ട് അതായത് വിബി വിഎഫി ന് തുല്യമാണ് ഇപ്പോൾ നമുക്ക് വി അറിയാം നമുക്ക് എഫ് അറിയാം ആ ലംബ രേഖയിൽ ഈ ദൂരം എന്താണെന്ന് നമുക്കറിയാം വിഎഫ് തുല്യമായ ദൂരം അടയാളപ്പെടുത്തി അതിനെ ബി എന്ന് നാമകരണം ചെയ്യുന്നു പോയിന്റ് സി യിലേക്ക് പോയിന്റ് ബി ചേർക്കുക അതിനാൽ നമ്മൾ ആ പോയിന്റ് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് തമ്മിൽ ചേർക്കുക നമുക്ക് ഇതിനകം തന്നെ പോയിന്റ് എഫ് ഉണ്ട് അത് ഫോക്കസ് ആണ് 45° ന് രേഖ വരയ്ക്കുക അതിനാൽ എഫ് പോയിന്റിലൂടെ സിബി യിൽ ചേരുന്നത് വരെ 45° ന് രേഖ വരയ്ക്കുക അതിനാൽ പോയിന്റ് സി പോയിന്റ് ബി എന്നിവ നമ്മൾ ഇതിനകം കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ നീട്ടുകയും തുടർന്ന് എഫി ൽ നിന്ന് 45° രേഖ ടാൻജന്റും ആയി ചേരുന്ന പോയിന്റിനെ താഴേക്ക് നീട്ടേണ്ടതുണ്ട് അതിനാൽ ഈ കോൺ 45° ആണ് അതിനാൽ നമുക്ക് ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ഉണ്ട് നമുക്ക് ആ പോയിന്റിനെ ഡി എന്ന് വിളിക്കാം ഇപ്പോൾ ഡി യിലൂടെ സി യിലേക്ക് ഡിവി' DV' എന്ന ലംബ രേഖ വരയ്ക്കുക അതിനാൽ ഇതാണ് ഇന്റർസെക്ഷൻ പോയിന്റ് അതിനാൽ നിങ്ങളുടെ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് ലംബ രേഖ നിർമ്മിച്ച് വി' V' എന്ന് പേരിടുക ഒരു വശത്ത് നമുക്ക് വി ഉണ്ട് മറ്റൊരു വശത്ത് നമുക്ക് വി' V' ഉണ്ട് അതിനാൽ ഡിവി' രേഖ സിസി' വരെ വരയ്ക്കുക അതിനാൽ നമ്മൾ V തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വി വി' VV' ന്റെ മധ്യഭാഗത്ത് O എന്ന് അടയാളപ്പെടുത്തണം അതിനാൽ ഈ അണ്ഡവൃത്തത്തിന്റെ ഒരു അറ്റം വി യും മറ്റേ അറ്റം വിവി VV' ഉം ആണ് ലംബ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്കറിയാം അതിനാൽ വിവി' VV' യിൽ നിന്ന് ആർക്കുകൾ ഉപയോഗിക്കുകയും ലംബമായ ബൈസെക്ടർ നിർമ്മിക്കുകയും ചെയ്യുക അതിനാൽ ആ ലംബ ബൈസെക്ടർ O ൽ മുട്ടും തുടർന്ന് VB' ൽ 1 2 3 പോയിന്റുകൾ അടയാളപ്പെടുത്തുക അതിനാൽ ഇവ വ്യത്യസ്ത തരം നീളങ്ങളാകാം ഇതിനകം നമ്മൾ സിവി യും വിഎഫും വിഭജിച്ചു അതിനാൽ ഇതിനകം തന്നെ 1 2 3 പോയിന്റുകൾ നമുക്കറിയാം അതുപോലെ വിബി രേഖയിൽ മറ്റ് പോയിന്റുകൾ കണ്ടെത്താം ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പോയിന്റ് 4 എന്ന് അടയാളപ്പെടുത്താം ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പോയിന്റ് 5 എന്ന് അടയാളപ്പെടുത്താം ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പോയിന്റ് 6 ഉം 7 ഉം അടയാളപ്പെടുത്താൻ കഴിയും പോയിന്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ സിഡി ഇൽ മുട്ടുന്നത് വരെ അവയിലൂടെ ലംബ രേഖകൾ വരയ്ക്കാം അതിനാൽ ഈ പോയിന്റ് 1 പോയിന്റ് 2 പോയിന്റ് 3 4 5 6 മുതലായവയിലൂടെ ലംബ രേഖകൾ വരയ്ക്കുക അങ്ങനെ അവ 1' 2 3 മുതൽ 6' വരെ പോയിന്ററുകളിൽ കർവിനെ വിഭജിക്കും അതുപോലെ O ലൂടെ ഒരു ലംബ രേഖ വരയ്ക്കുക ഇപ്പോൾ എഫ് കേന്ദ്രമാക്കി 2 2 ആരം ഉപയോഗിക്കുക അതുപോലെ തന്നെ എഫ് കേന്ദ്രമാക്കി 1 1 ആരം ഉപയോഗിക്കുക അതിനാൽ 1 മുതൽ 1' വരെ ദൂരം ആരം ആയി ഉപയോഗിച്ച് എഫ് കേന്ദ്രമാക്കി 1 1 ലംബ രേഖയിൽ രണ്ട് ആർക്കുകൾ മുറിക്കുക അതിനാൽ എഫ് കേന്ദ്രമാക്കി ഒരു ആർക്ക് മുറിച്ചു പോയിന്റ് പി1 ഇവിടെയും അവിടെയും കണ്ടെത്തുക അങ്ങനെ നമുക്ക് പോയിന്റുകൾ പി 1 പി 1' P1 P1'എന്നിവ ലഭിക്കും അതിനാൽ പി1 പി1' P1 P1' എന്നീ പോയിന്റുകൾ അറിഞ്ഞുകഴിഞ്ഞാൽ ഈ പോയിന്റുകൾ ചേർക്കുന്നതിലൂടെ ഒരു അണ്ഡവൃത്തം കടന്നുപോകാൻ തുടങ്ങും പോയിന്റുകൾ V ഫോക്കസ് F P 1 P 1 ഇതിനകം നമുക്കറിയാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എഫ് കേന്ദ്രമായി 2 2' ആരം ഉപയോഗിച്ച് അതേ ഘട്ടങ്ങൾ ആവർത്തിക്കുക എന്നതാണ് അതിനാൽ എഫി ൽ നിന്ന് 2 2' ദൂരം ആരമായി എടുത്തു ഒരു ആർക്ക് മുറിക്കുക അങ്ങനെ നമുക്ക് പോയിന്റുകൾ പി 2 പി 2' ലഭിക്കും ഇപ്പോൾ നമ്മൾ ആർക്ക് നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് ആയിരിക്കും അതുപോലെ 3 3' ദൂരം ആരമായി എടുത്തു എഫ് കേന്ദ്രമായി ആർക്ക് കട്ട് ചെയ്തു ഈ ലംബ വരകളെ വിഭജിക്കാൻ പോകുന്നു അവിടെ നിന്ന് ഈ അണ്ഡവൃത്തം എങ്ങനെ നീങ്ങുന്നുവെന്ന് കണ്ടെത്താനാകും അതിനാൽ ഈ മുഴുവൻ നടപടിക്രമങ്ങളും നമ്മൾ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ പോയിന്റുകൾ V P1 P2 P4 മുതലായവയിലൂടെ കടന്നുപോകുന്ന സുഗമമായ കർവ് വരയ്ക്കുക ഇപ്പോൾ നമ്മൾ ഒരു അണ്ഡവൃത്തം നിർമിക്കാൻ ഉള്ള അവസ്ഥയിലായിരിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഈ അണ്ഡവൃത്തത്തിൽ ചെന്ന് എത്തും ടാൻജെന്റ് നോർമൽ നിർമ്മിക്കാൻ ഒരാൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ നോർമലും ടാൻജെന്റും എങ്ങനെ നിർമ്മിക്കാമെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റിൽ അത് ഘട്ടം ഘട്ടമായി ചെയ്യാം അതിനാൽ ആദ്യമായി ഒരു ഡയറക്ട്രിക്സ് എബി വരയ്ക്കുക നമ്മൾ പിന്തുടരാൻ പോകുന്ന ഡൈമെൻഷൻസ് സി പോയിന്റിൽ നിന്ന് 70 മാറി ഫോക്കസും എക്സിൻട്രിസിറ്റി യുടെ അനുപാതം 34 ഉം ആണ് അതിനാൽ എക്സിൻട്രിസിറ്റി ത്രീ ഫോർത്തും ഡയറക്ട്രിക്സിൽ നിന്ന് ഫോക്കസ് വരെ 70 മില്ലീമീറ്ററായിരിക്കണം അതിനാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകു ന്നത് ഒരു ലംബമായ ഡയറക്ട്രിക്സ് രേഖ വരയ്ക്കുക എന്നതാണ് ഡയറക്ട്രിക്സിന് എബി എന്ന് പേരിടാം പിന്നെ നമ്മൾ ഒരു രേഖ സിസി നിർമ്മിക്കണം നമ്മൾ ഒരു തിരശ്ചീന രേഖ ഉപയോഗിക്കുകയും അതിനെ ഇവിടെ C എന്നു ഇവിടെയും C എന്ന് അവിടെയും പേരിടാൻ പോകുന്നു അതിനാൽ സി' C' ഇവിടെ എവിടെയോ ഉള്ളതിനാൽ അത് ദൃശ്യമാകില്ല അതിനാൽ ആദ്യ ഘട്ടം എന്നത് ഡയറക്ട്രിക്സ് എബി സിസി എന്നിവ വരയ്ക്കുക എന്നതാണ് ഞങ്ങൾ അത് കുറിച്ചിടുന്നു തുടർന്ന് സിസി' CC' ൽ എഫ് അടയാളപ്പെടുത്തുക രണ്ടാമത്തെ ഘട്ടം നമ്മൾ സിസി' CC' അടയാളപ്പെടുത്തണം അതായത് സിഎഫ് 70 മില്ലിമീറ്ററിന് തുല്യമാണ് സി ഈ പോയിന്റും എഫ് ആ പോയിന്റുമാണ് അതിനാൽ നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റിൽ 70 മില്ലീമീറ്റർ അടയാളപ്പെടുത്തണം അതിനാൽ ഇവിടെ 70 മില്ലീമീറ്റർ പോയിന്റ് കണ്ടെത്തുക ഇത് ഫോക്കസ് പോയിന്റാണ് അതിനാൽ രണ്ടാമത്തെ ഘട്ടം നമ്മൾ C മുതൽ F വരെ 70 മില്ലീമീറ്റർ എന്ന് അടയാളപ്പെടുത്തുന്നു ഇപ്പോൾ CF നെ 7 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക 70 മില്ലീമീറ്റർ ആയതിനാൽ ഈ രേഖ വിഭജിക്കുന്നത് നമുക്ക് എളുപ്പമാണ് ഇത് 69 മില്ലീമീറ്റർ അല്ലെങ്കിൽ 68 മില്ലീമീറ്റർ പോലെയുള്ള ഭിന്നസംഖ്യയാണെങ്കിൽ ഈ ചെരിഞ്ഞ വരി ഉപയോഗിച്ച് അതിനെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു ഇത് 70 മില്ലീമീറ്റർ ആയതിനാൽ പോയിന്റ് 1 2 3 4 5 6 7 എന്നിവ കണ്ടെത്താൻ നമുക്ക് എളുപ്പമാണ് V C ഇൽ നിന്നും നാലാമത്തെ പോയിന്റിൽ അടയാളപ്പെടുത്തുക അതിനാൽ ഈ ദൂരം 1 യൂണിറ്റ് 2 യൂണിറ്റുകൾ 3 യൂണിറ്റുകൾ 4 യൂണിറ്റുകൾ ആണ് ഫോക്കസ് മുതൽ കർവിന്റെ പോയിന്റ് വരെ ഉള്ള ദൂരം 40 മില്ലീമീറ്ററും ആണ് കർവ് ഈ പോയിന്റിലൂടെ കടന്നുപോകുന്നതിനാൽ ഇത് മൂന്ന് യൂണിറ്റുകളായിരിക്കും അത് 4 യൂണിറ്റായിരിക്കും അതിനാൽ നമുക്ക് 34 യൂണിറ്റുകൾ ലഭിക്കും നമുക്ക് ഈ പോയിന്റിനെ V എന്ന് അടയാളപ്പെടുത്താം അതിനാൽ ഇതാണ് പോയിന്റ് V FV മുതൽ CV വരെ 34 യൂണിറ്റ് ആയിരിക്കും അത് 0 75 ആണ് അതിനാൽ മൂന്നാം ഘട്ടത്തിൽ നമുക്ക് മൂന്നാം പോയിന്റ് ലഭിക്കും നമുക്ക് ഈ പോയിന്റ് V എന്ന് അടയാളപ്പെടുത്താം അതിനാൽ ഇതാണ് V V യുടെ പോയിന്റ് FV മുതൽ CV വരെ 3 മുതൽ 4 യൂണിറ്റ് വരെ ആയിരിക്കും അത് 0 75 ആണ് അതിനാൽ മൂന്നാം ഘട്ടത്തിൽ ഞങ്ങൾക്ക് മൂന്നാം പോയിന്റ് ലഭിക്കും അടുത്തതായി നമ്മൾ വിഎഫി ദൂരത്തിനു തുല്യമായ വിബി എന്ന ലംബമായി ഒരു രേഖ വരയ്ക്കുന്നു അതായത് വിബിയുടെ നീളം വിഎഫിന് തുല്യമാണ് അതിനാൽ ആദ്യം ഈ ദൂരം അളക്കുകയും വിബി ദൂരം ഈ സ്ഥാനത്ത് നിന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുക അതിനാൽ 1 2 3 യൂണിറ്റുകളെ നമുക്ക് ബി 1 2 3 യൂണിറ്റുകൾ എന്ന് വിളിച്ച് സിബി രേഖയിൽ ചേർക്കാം ഇപ്പോൾ എഫ് ഇൽ നിന്ന് 45° രേഖ വരയ്ക്കുക അതിനാൽ നമ്മൾ ഇതുപോലുള്ള ഫോക്കസ് പോയിന്റ് കണ്ടെത്തുന്നു എഫ് മുതൽ ആ പോയിന്റ് വരെ ഈ രണ്ട് രേഖകൾ വരയ്ക്കുക അത് ഇവിടെ എവിടെയെങ്കിലും വിഭജിക്കും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അത് ബോക്സിന് പുറത്താണ് നമുക്ക് അത് താഴേക്ക് വലിച്ചിടാം അതിനാൽ അത് അവിടെ എവിടെയെങ്കിലും വിഭജിക്കാൻ പോകുന്നു അതിനാൽ ഈ ഡ്രോയിംഗ് ഷീറ്റുകളിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ ഈ ഘട്ടത്തിൽ അത് എവിടെയെങ്കിലും വിഭജിക്കാൻ പോകുന്നു പോയിന്റുകൾ അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഡി കണ്ടെത്തും ആദ്യം ഒരു ലംബ വര വരയ്ക്കുക അതുവഴി നമുക്ക് വി' V' നിർമ്മിക്കാൻ കഴിയും നമ്മൾ പോയിന്റ് നമ്പർ 5 ലാണ് നില്കുന്നത് അവിടെ നമ്മൾ പോയിന്റ് എഫി ൽ നിന്ന് 45° രേഖ വരച്ചിട്ടുണ്ട് ഇതിനകം വിഎഫ് നെ വിബിക്ക് തുല്യമായി അടയാളപ്പെടുത്തും അതിനാൽ സി യിൽ നിന്ന് ഒരു രേഖ ബി വരെ നീട്ടുന്നു ഫോക്കസ് പോയിന്റ് എഫി ൽ നിന്ന് 45° രേഖ വരയ്ക്കുകയും അത് ഡി യിൽ വിഭജിക്കുകയും ചെയ്യുന്നു ഈ വിഭജന പോയിന്റ് D നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ COV' ൽ കണ്ടുമുട്ടുന്ന തിരശ്ചീന രേഖയിലേക്ക് D ൽ നിന്നും താഴേക്ക് ലംബമായി രേഖ വരയ്ക്കുന്നു അതിനാൽ വി അണ്ഡവൃത്തത്തിന്റെ ഒരറ്റവും വി' V' അണ്ഡവൃത്തത്തിന്റെ മറ്റേ അറ്റവുമാണ് നമ്മൾ ഒരു അണ്ഡവൃത്തം വരയ്ക്കുകയാണെങ്കിൽ അത് ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്നു V' V എന്നിവ അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇന്റർസെക്ഷൻ പോയിന്റ് ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ O ൽ ഒരു ലംബ ബൈസെക്ടർ കൂട്ടിമുട്ടുന്നു അതിനാൽ ഇത് അണ്ഡവൃത്തത്തിന്റെ കേന്ദ്രമാണ് ഇതിന് 2 ഫോസൈ ഉണ്ട് നമുക്ക് V മുതൽ F വരെ ദൂരമുണ്ട് O കേന്ദ്രമാണ് അതിനാൽ എഫ്ഒ ദൂരം O ഇൽ നിന്ന് അടയാളപ്പെടുത്തിയാൽ അവിടെ മറ്റൊരു ഫോക്കസ് F' കണ്ടെത്താനാകും മറ്റൊരു വഴി വി യിൽ നിന്നുള്ളതാണ് എഫി ന്റെ ദൂരം എന്തുതന്നെയായാലും നമുക്ക് മറ്റൊരു ഫോക്കസ് ഉണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് അത് ലഭിക്കാൻ പോകുന്നു അതിനാൽ ഈ രേഖകൾ നമ്മൾ നിർവ്വചിച്ചുകഴിഞ്ഞാൽ ഫോക്കസ് പോയിൻറ് വീണ്ടും ആ സ്ഥാനത്ത് ആയിരിക്കും അതിനാൽ ഈ കർവിന്റെ പകുതി ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ ഈ കർവിന്റെ 1 2 3 4 5 തരം പോയിന്റുകൾ കണ്ടെത്താമെന്ന് നമുക്കറിയാം 1 മുതൽ 1' വരെ ദൂരം ആരവും ഫോക്കൽ പോയിന്റ് എഫ് കേന്ദ്രവും ഉപയോഗിച്ച് ഒരു ആർക്ക് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക ഇത് 1 1' ൽ ലഭിക്കാൻ പോകുന്നു അതുപോലെ മറുവശത്ത് ഒരു കട്ട് ഉണ്ടാക്കുക അതിനാൽ ഈ പോയിന്റുകൾക്ക് പി 1 പി 1' P1 P1' എന്ന് പേര് നൽകുക അതുപോലെ ദൂരം 2 മുതൽ 2' വരെ ദൂരം ആരവും എഫ് കേന്ദ്രമായി മറ്റൊരു ആർക്ക് ഉണ്ടാക്കുക നമ്മൾ അതിനെ പി 2 എന്ന് വിളിക്കുന്നു അതുപോലെ ഇവിടെ നിന്ന് 1 മുതൽ 2 വരികൾ ഉപയോഗിച്ച് മറ്റൊരു ആർക്ക് ഉണ്ടാക്കുക അതിനാൽ നമ്മൾ ഈ വരികൾ വിപുലീകരിക്കുകയാണെങ്കിൽ അത് ഈ ഘട്ടത്തിൽ വിഭജിക്കാൻ പോകുന്നു അതിനാൽ ഇതാണ് പി 2' P2' ഇത് പി 2 ആണ് നമുക്ക് എത്ര പോയിന്റുകൾ ലഭിക്കാൻ പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് കൂടുതൽ പോയിന്റുകൾ അടയാളപ്പെടുത്തി ഈ ലംബ രേഖകൾ വരയ്ക്കണം നമുക്ക് ഇനിയും നിരവധി പോയിന്റുകൾ നേടാനാകും ഒരു കർവ് നിർമ്മിക്കുന്നതിന് ഫോക്കസ് പോയിന്റിൽ നിന്ന് ദൂരം അടയാളപ്പെടുത്തേണ്ടത് ഈ പോയിന്റിൽ നിന്ന് മാത്രമാണ് അതുപോലെ ഈ പോയിന്റിൽ നിന്ന് ഈ ലംബ ദൂരം എന്തുതന്നെയായാലും ആ ലംബ ദൂരം ഉപയോഗിച്ച് ഒരു ആർക്ക് നിർമ്മിക്കുന്നതിനാൽ ഈ പോയിന്റുകൾ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയും അതിനാൽ നമുക്ക് ഒരു ഫ്രീഹാൻഡ് കർവ് ലഭിക്കണമെങ്കിൽ നമുക്ക് ഫ്രഞ്ച് കർവുകൾ ഉപയോഗിക്കാം നമ്മൾ ഒരു ഫ്രീഹാൻഡ് കർവ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു അണ്ഡവൃത്തം ഉണ്ടാക്കുന്നു അത് അവിടെയുള്ള എല്ലാ വഴികളും ട്രാക്കുചെയ്യുകയും വീണ്ടും വി 1 പോയിന്റിലൂടെ കടന്നുപോകുകയും തിരികെ വരികയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ അണ്ഡവൃത്തം നിർമ്മിക്കുന്നത് അതിനാൽ നമ്മൾ ഇവിടെ അണ്ഡവൃത്തത്തിന്റെ ഒരു ഭാഗം നിർമ്മിച്ചു നമ്മൾ ഈ നടപടിക്രമവുമായി പോയാൽ ഒടുവിൽ നമ്മൾ ഈ അണ്ഡവൃത്തം നിർമ്മിക്കും ഏതൊരു അണ്ഡവൃത്തത്തിനും നമ്മൾ ഫോക്കസിൽ നിന്ന് ഒരു പോയിന്റ് തിരഞ്ഞെടുക്കുന്നു നമുക്ക് ഈ പോയിന്റിനെ 3 എന്ന് വിളിക്കാം ഈ ഘട്ടത്തിൽ നിന്ന് ഡയറക്ട്രിക്സ് സി വരെ ഈ കേസിൽ അത് 4 ആണ് അതിനാൽ ഇവിടെ എക്സിൻട്രിസിറ്റി ¾ ആണ് ഇത് e 1 ൽ കുറവാണെങ്കിൽ നമുക്ക് ഒരു അണ്ഡവൃത്തം ലഭിക്കും ഈ സാഹചര്യത്തിൽ നമ്മൾ മൂന്നാമത്തേത് ഉപയോഗിച്ചു ഒരാൾക്ക് പകുതി പോലുള്ള ഒന്ന് ഉപയോഗിക്കാം ഇ 34 അനുപാതത്തിന് തുല്യമാണെങ്കിൽ അത് 0 75 ആകുന്നു അതിനാൽ 12 അനുപാതം അർത്ഥമാക്കുന്നതിനു നമ്മൾ അതിനെ 3 ഭാഗങ്ങളാക്കണം ആ ദിശയിൽ 2 ഭാഗങ്ങൾ കണ്ടെത്തുക 1 ഭാഗം നമ്മൾ അതേ നടപടിക്രമവുമായി പോകുന്നു നമുക്ക് മറ്റൊരു അണ്ഡവൃത്തം ലഭിക്കും ഒരാൾ ഒരു അണ്ഡവൃത്തം നിർമ്മിക്കുന്നതിനുള്ള പൊതു മാർഗ്ഗമാണിത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ രീതിയെക്കുറിച്ചും അതിനു ശേഷം ഒബ്ലോങ് രീതിയെക്കുറിച്ചും പഠിക്കും